സെൽ കൾച്ചർ ലെക്ചർ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസിലും അതിനു മുൻപുള്ള രണ്ടു ക്ലാസ്സുകളിലും ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അസ്ഥിപേശി എങ്ങനെ വളർത്തിയെടുക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് അതേ രീതിയിൽ ഹൃദയപേശികളെ എങ്ങനെ വളർത്തിയെടുക്കാം എന്ന് നോക്കാം ഹൃദയപേശികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും ഹൃദയപേശികൾക്ക് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ മാനദണ്ഡം തീർച്ചയായും കോശങ്ങൾ സങ്കോചിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതായിരിക്കും ഹൃദയകോശങ്ങൾ സങ്കോചിക്കുകയും അവ സ്വയമേവ ഹൃദയ പേശികളുടെ സങ്കോചം സാധ്യമാക്കുകയും ചെയ്യുന്നു ഇവിടെ മൂന്നുതരത്തിലുള്ള പേശികളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാതിരിക്കാൻ കാരണം അതിനാൽ ഞാൻ ഇതിനെ താഴേക്ക് വലിച്ചെടുക്കാം അപ്പോൾ ഇത് ഏഴാമത്തെ ആഴ്ചയിലെ അഞ്ചാമത്തെ ലെക്ചർ ആണ് w 7 L 5 അപ്പോൾ ഹൃദയകോശങ്ങൾ ആദ്യം ഈ പേശികളുടെ വർഗ്ഗീകരണത്തെക്കുറിച്ച് സംസാരിക്കാം പേശികളെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം അസ്ഥിപേശി അതിനെക്കുറിച്ച് നാം ആഴത്തിൽ സംസാരിച്ചതാണ് പിന്നെ ഹൃദയ പേശിയും മിനുസമാർന്ന പേശിയും അപ്പോൾ ഇന്ന് നമുക്ക് ഹൃദയപേശികളെ കുറിച്ച് അല്പം കൂടി അറിയാം കാരണം ഹൃദയപേശികളെ വളർത്തിയെടുക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേർ ഉണ്ട് എന്നാൽ അവർക്ക് എവിടെനിന്ന് ആരംഭിക്കണമെന്ന് ശരിയായ ധാരണയില്ല അപ്പോൾ ഇവിടെ ധാരാളം സെൽ ലൈനുകൾ ഉണ്ട് ധാരാളം സെൽ ലൈനുകൾ എന്നല്ല ഒരു പ്രത്യേക സെൽ ലൈൻ എടുക്കാം മുൻപ് സൂചിപ്പിച്ചതുപോലെ അസ്ഥി പേശികളിൽ ധാരാളം സെൽ ലൈനുകൾ ഉണ്ട് ഇത് അവയിലൊന്നാണ് ഇത്തരത്തിൽ തന്നെ ഹൃദയപേശികളുടെ കാര്യത്തിലും സാധ്യമെങ്കിൽ മൃഗങ്ങളുടെ പേശികളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന പ്രൈമറി കൾച്ചർ എടുക്കാനാണ് ഞാൻ ശുപാർശ ചെയ്യുക ഇത്രയും വർഷത്തെ എൻറെ പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തെന്നാൽ ഇതിന് അനുയോജ്യമായ ഏറ്റവും നല്ല ഉറവിടം ഗർഭിണികളായ എലികൾ ആണ് E 13 മുതൽ E14 വരെയുള്ള ഹൃദയപേശികൾ ആണ് ഇതിന് ഏറ്റവും അനുയോജ്യം വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്നുതന്നെ നമുക്ക് ആരംഭിക്കാം ഞാൻ മുന്നേ തന്നെ E 13 E 14 ഇവയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് E 18 എത്തുമ്പോഴേക്കും നമ്മൾ ഫീറ്റൽ അഥവാ F 18 എന്ന് വിളിക്കുന്നു അവിടെനിന്നാണ് ഹിപ്പോകാമ്പസ് വേർതിരിച്ചത് എൻറെ അനുഭവത്തിൽ ഹൃദയപേശികളുടെ കാര്യത്തിലും ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ് കൂടുതൽ പക്വത എത്തിയ പേശികളിൽ നിന്നാണ് കോശങ്ങൾ വേർപ്പെടുത്തുന്നത് എങ്കിൽ അതിൽ ഫൈബ്രോബ്ലാസ്റ്റിന്റെയും മറ്റ് അനാവശ്യ കോശങ്ങളുടെയും സാന്നിധ്യം കൂടുതലായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനാവില്ല കാരണം അവയിൽ പല കോശങ്ങളും ആവശ്യമുള്ള കോശങ്ങളെക്കാൾ വളരെ വേഗത്തിൽ വിഭജിക്കുന്നതായി കാണാം അപ്പോൾ എലികളുടെ കാര്യത്തിൽ എളുപ്പവഴി ഇതാണ് എലികളുടെ കാര്യത്തിൽ E14 അവസ്ഥയിലുള്ള ചെറിയ ഭ്രൂണത്തെ എടുക്കുക മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ അവയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും ഹൃദയപേശികൾ ലഭിക്കാനായി അവയിൽനിന്ന് ഹൃദയം പൂർണമായി പുറത്തേക്കെടുക്കുക വളരെ നല്ല ഡിസ്ക്റ്റിംഗ് മൈക്രോസ്കോപ്പ് ഇല്ലെങ്കിൽ വെൻട്രിക്കുലാർ അല്ലെങ്കിൽ ആട്രിയം ആണോ ഇത് എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല പകരം നിങ്ങൾക്ക് ഇതിൽനിന്ന് ഒരു ചെറിയ ഭാഗം എടുക്കാനാകും അതിൽ അപ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിൽ രക്തക്കുഴലുകൾ കാണാനാകും ഈ കോശങ്ങൾ വേർതിരിച്ചെടുക്കാൻ ഉള്ള ഏറ്റവും നല്ല മീഡിയം L 15 ആണ് L 15 ൽ നിങ്ങൾക്ക് B 27 ഗ്ലൂട്ടാമക്സ് എന്നിവകൂടി ചേർക്കാവുന്നതാണ് അതിനെക്കുറിച്ചുള്ള പേപ്പറുകൾ ഞാൻ നിങ്ങൾക്ക് നൽകാം ഗ്ലൂട്ടാമക്സ് ഗ്ലൂട്ടാമിൻറെ ഡൈപെപ്റ്റൈഡ് ആണ് മാത്രമല്ല ഇത് കൂടുതൽ സ്ഥിരതയുള്ള സംയുക്തമാണ് അപ്പോൾ ഈ കോശങ്ങളെ വേർതിരിക്കാൻ നിങ്ങൾക്ക് L 15 മീഡിയം ഉപയോഗിക്കാം B 27 ഒരു ന്യൂറോണൽ ഘടകമാണ് എന്നാൽ ഇത് ഒരു ഘട്ടത്തിൽ ഹൃദയ വളർച്ചയെ വളരെയധികം പിന്തുണയ്ക്കുന്നതായി കാണുന്നു ഇത് ന്യൂറോണിനായി നിർമ്മിച്ചതാണെങ്കിലും വളരെ രസകരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നു പറ്റാവുന്നത്ര ഹൃദയങ്ങൾ ഭ്രൂണങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുക അവ ഇത്തരത്തിൽ വളരെ വളരെ ചെറുതായിരിക്കും ഒരു പിപ്പറ്റ് അഗ്രം ഉപയോഗിച്ച് ഇത്തരത്തിൽ പതുക്കെ ഞെക്കി കൊടുക്കുക അപ്പോൾ അതിലെ രക്തക്കുഴലുകളിൽ ഉള്ള രക്തം ഇത്തരത്തിൽ പുറത്തേക്ക് ഒഴുകുന്നു അപ്പോൾ പേശി അല്പം കൂടി വൃത്തിയുള്ളതായിത്തീരുന്നു ഇനിയാണ് വേർപെടുത്തി എടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇത്തരത്തിലുള്ള മുഴുവനായ ചെറിയ ഹൃദയങ്ങൾ ആണ് കോശങ്ങളെ വേർപെടുത്താനുള്ള എളുപ്പവഴി യാന്ത്രികമായ രീതികൾ ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പവഴി അതാണ് കാരണം ഈ ഹൃദയങ്ങൾ വളരെ ദുർബലമാണ് ഇവയിൽനിന്ന് കോശങ്ങൾ വേർതിരിക്കുക എന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള 10 ഹൃദയങ്ങൾ 10 ഭ്രൂണങ്ങളിൽ നിന്ന് ഈ മീഡിയത്തിൽ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നിരിക്കട്ടെ ഇനി നിങ്ങൾ നിങ്ങളുടെ പിപ്പറ്റ് അഗ്രം എടുക്കുക ഇത്തരത്തിൽ ഉള്ളിലേക്കും പുറത്തേക്കും വലിച്ചു വിടുക നിങ്ങൾ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് യാന്ത്രികമായ രീതിയുടെ ഉപയോഗപ്പെടുത്തലാണ് നിങ്ങൾക്ക് കാണാനാകും ഈ രീതി കോശങ്ങളെ വേർപെടുത്തുന്നതിന് വളരെ വളരെ നല്ലതാണ് ഈ ഘട്ടത്തിൽ ട്രിപ്സിൻ ട്രിപ്സിൻ ഇൻഹിബിറ്റർ എന്നിവ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എൻസൈമാറ്റിക് ചികിത്സയും ആന്റി എൻസൈമാറ്റിക് ചികിത്സയും ഉപയോഗിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഞാൻ ആ രീതി നിങ്ങൾക്ക് ശുപാർശ ചെയ്യില്ല പകരം ഈ യാന്ത്രികമായ രീതി പ്രയോജനപ്പെടുത്താൻ ആണ് ഞാൻ നിങ്ങളോട് പറയുക ഇത്തരം ദുർബലമായ ഹൃദയങ്ങളിൽ നിന്ന് കോശങ്ങളെ വേർതിരിക്കാൻ ഫലപ്രദമായ രീതിയാണ് ഇത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും അതിനാൽ ഇത്തരത്തിൽ പതുക്കെ ചെയ്യണം ഇതിൽ വായു കുമിളകൾ രൂപപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം ഇവിടെ വായു കുമിള രൂപപ്പെട്ടിട്ടില്ല വായു കുമിളകൾ രൂപപ്പെടുകയാണെങ്കിൽ അവ പേശികളെ നശിപ്പിക്കാം അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒന്നാണ് ലഭിക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീഡിയം ഉണ്ടായിരിക്കും അതിൽ ഇത്തരത്തിൽ ഉണ്ടാക്കിയ സിംഗിൾ സസ്പെൻഷനും ഉണ്ടായിരിക്കും ഇനി എന്താണ് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ പൂർണമായി അല്ലെങ്കിൽ ചിലത് ഭാഗികമായി വേർപെട്ട കോശങ്ങൾ ആണ് ഉള്ളത് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല അത്തരം കോശങ്ങൾ നിങ്ങളുടെ പക്കൽ ഉണ്ട് ഇനി എന്താണ് നിങ്ങൾ ചെയ്യുക അടുത്തതായി ഇതിനെ സ്പിൻ ചെയ്തെടുക്കാം അങ്ങനെ സ്പിൻ ചെയ്തു എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഒന്നാണ് നിങ്ങളുടെ കയ്യിൽ മീഡിയം ഉണ്ട് ഇത്തരത്തിൽ സ്പിൻ ചെയ്തു എടുക്കുന്നത് വളരെ ശക്തമാണ് നിങ്ങൾക്ക് 500 ആർപിഎമ്മിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ പോകാം നിങ്ങൾ അത് പെല്ലറ്റ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കറക്കി എടുക്കുമ്പോൾ സിംഗിൾ സെൽ സസ്പെൻഷന്റെ പെല്ലറ്റ് ലഭിക്കും അപ്പോൾ ഇവിടെ മീഡിയം ഉണ്ട് ഇനി നിങ്ങൾ എന്തു ചെയ്യും അടുത്ത പടി ഈ മീഡിയത്തിനെ വലിച്ച് നീക്കം ചെയ്യലാണ് ഒരല്പം വളരെ കുറച്ച് മീഡിയം ബാക്കി നിർത്തണം ഇത് വരണ്ടു പോകാതിരിക്കാൻ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിംഗിൾ സെൽ സസ്പെൻഷൻ ഉണ്ട് പൂർണ്ണമായി ഒറ്റ കോശങ്ങളായി വേർപെടാത്ത ചില ഭാഗങ്ങൾ കണ്ടെന്നുവരാം എന്നാൽ അവയെ എളുപ്പത്തിൽ നീക്കം ചെയ്യാനുള്ള എളുപ്പവഴി ഉണ്ട് ഒരല്പം മീഡിയം ബാക്കി വെച്ചിരുന്നല്ലോ അത് ഒരു ഡിഷിൽ പകർത്തുക പൂർണ്ണമായി ഒറ്റ കോശങ്ങളായി വേർപെട്ടിട്ടില്ലാത്ത ഇത്തരം വലിയ ഭാഗങ്ങൾ എളുപ്പത്തിൽ താഴെ അടിയും നാലഞ്ചു മിനിറ്റ് അനക്കാതെ വയ്ക്കുക ഒറ്റ കോശങ്ങൾ അടങ്ങിയ സസ്പെൻഷൻ തിരിച്ചു വലിച്ചെടുക്കാവുന്നതാണ് അതായത് ഇത്തരത്തിലുള്ള വലിയ ഭാഗങ്ങൾ എളുപ്പത്തിൽ താഴെ അടിയും ഈ ഡിഷിനെ ചെറുതായി ഒന്ന് ചരിച്ചു പിടിച്ചാൽ ഇത്തരത്തിൽ സിംഗിൾ സെൽ സസ്പെൻഷൻ വേർതിരിച്ച് ഒരു ടെസ്റ്റ് ട്യൂബ് ലേക്ക് മാറ്റാവുന്നതാണ് ഞാൻ ഇവയെ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവയെ വളർത്തിയെടുക്കാനുള്ള മീഡിയം ഇതിൽ വീണ്ടും നൽകേണ്ടതുണ്ട് E14 വളർത്തിയെടുക്കാൻ ഞാൻ വർഷങ്ങളായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള മീഡിയം ഗ്ലുട്ടാമാക്സ് ആണ് കോശങ്ങളെ വളർത്തിയെടുക്കാൻ കാർബൺഡയോക്സൈഡ് ഇൻകുബേറ്റർ ഉപയോഗിക്കണം അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും സോഡിയം ബൈകാർബണേറ്റ് ഇവിടെ ചേർക്കേണ്ടതുണ്ട് എത്ര പെർസെന്റ് സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കണം എന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല ഞാൻ നോക്കിയശേഷം പിന്നീട് നിങ്ങളോട് പറയാം അപ്പോൾ ഡിസ്ക്റ്റിംഗ് മീഡിയ ത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പ്ലേറ്റിംഗ് മീഡിയ ത്തിൽ എത്തിയിരിക്കുകയാണ് ഇവ തമ്മിലുള്ള ഏക വ്യത്യാസം ഇവിടെ പ്ലേറ്റിംഗ് മീഡിയത്തിൽ സോഡിയം കാർബണേറ്റ് ചേർക്കുന്നു എന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിൽ പ്ലേറ്റിംഗ് മീഡിയം ഉണ്ട് ഞാൻ അതിനായി വ്യത്യസ്തമായ ഒരു നിറം ഉപയോഗിക്കുകയാണ് ഇനി ഈ കോശങ്ങൾ എടുക്കുക ഈ കോശങ്ങൾ വളർത്തിയെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കവർ സ്ലിപ് അല്ലെങ്കിൽ ഡിഷ് അനുയോജ്യമായ സബ്സ്ട്രാറ്റ് ഉപയോഗിച്ച് മുൻകൂട്ടി തന്നെ ആവരണം ചെയ്യേണ്ടതുണ്ട് സബ്സ്ട്രാറ്റ് ഉപയോഗിച്ച് ആവരണം ചെയ്യുന്നത് 12 അല്ലെങ്കിൽ 24 മണിക്കൂർ മുന്നേ തന്നെ ചെയ്തു വയ്ക്കണം അവസാന നിമിഷം ചെയ്യാനായി മാറ്റി വയ്ക്കരുത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ പദ്ധതി ഉണ്ടായിരിക്കണം ഈ ആവരണം ചെയ്തു വെച്ചിരിക്കുന്ന സബ്സ്ട്രാറ്റ് ഇനി നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ആദ്യം തന്നെ വളരെ ചെറിയ അളവിൽ സെൽ സസ്പെൻഷൻ ഇതിനു മുകളിൽ ഇടുക നിങ്ങളുടെ പക്കൽ 50 കവർ സ്ലിപ്അല്ലെങ്കിൽ 12 കവർ സ്ലിപ് അതുമല്ലെങ്കിൽ 6 കവർ സ്ലിപ്പിൽ ഇത്തരത്തിൽ കോശങ്ങളെ നിക്ഷേപിക്കേണ്ടതുണ്ടാകും അതിനാൽ കോശങ്ങളെ 1 മുതൽ 2 ml പ്ലേറ്റിംഗ് മീഡിയത്തിലേക്ക് നിക്ഷേപിക്കുന്നതാണ് അഭികാമ്യം 1 ml അല്ലെങ്കിൽ 2 ml മീഡിയത്തിലാണ് നിങ്ങൾ കോശങ്ങൾ നിക്ഷേപിക്കുന്നത് എന്നിരിക്കട്ടെ 6 കവർ സ്ലിപ്പിലേക്ക് അതിനെ വിഭജിക്കണം അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും 2 ml എന്നാൽ 2000 µl 2000 µl നെ 6 കൊണ്ട് ഹരിക്കുക അതായത് 300 µl വീതം അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടുതൽ ഓരോ ഡിഷിലും അല്ലെങ്കിൽ ഓരോ വെല്ലിലും അല്ലെങ്കിൽ ഓരോ കവർ സ്ലിപ്പിലും നിങ്ങൾ പ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കോശങ്ങളെ പ്ലേറ്റ് ചെയ്യുക എന്നാൽ അളവ് കൂടാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് ശുപാർശ ചെയ്യാൻ ഉള്ള ഒരു കാര്യം പറ്റുന്നിടത്തോളം കോശങ്ങളെ വ്യാപിപ്പിച്ച് പ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അൽപസമയം അതിനുശേഷം കാത്തിരിക്കാം ശേഷം CO2 ഇൻകുബേറ്ററിൽ വെക്കാം 30 മിനിറ്റെങ്കിലും കോശങ്ങളെ പ്ലേറ്റ് ചെയ്തശേഷം പുറത്തു വയ്ക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായ രീതി 30 മിനിറ്റിനുശേഷം 1 മുതൽ 2ml വരെ മീഡിയം വളരെ സൌമ്യമായി ചേർത്ത് കൊടുക്കാവുന്നതാണ് അത്രയേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ നിങ്ങൾ കോശങ്ങളെ പേശിയിൽ നിന്നോ ഇവിടെ അവയവത്തിൽ നിന്നും വേർതിരിച്ചെടുത്തു അവയെ യാന്ത്രികമായ രീതി ഉപയോഗപ്പെടുത്തി വേർതിരിച്ച് സിംഗിൾ സെൽ സസ്പെൻഷൻ ഉണ്ടാക്കി സിംഗിൾ സെൽ സസ്പെൻഷൻ ഉണ്ടാക്കിയ ശേഷം അവയെ നിങ്ങൾ സ്പിൻ ചെയ്തെടുത്തു സസ്പെൻഷൻ വലിച്ചെടുത്ത് പ്ലേറ്റിംഗ് മീഡിയത്തിൽ നിക്ഷേപിച്ചു അതിനുശേഷം നിങ്ങൾ അവയെ പ്ലേറ്റ് ചെയ്യുന്നു അപ്പോൾ മുൻകൂട്ടി സബ്സ്ട്രാറ്റ് ആവരണം ചെയ്തിടത്ത് ഈ കോശങ്ങളെ പ്ലേറ്റ് ചെയ്ത ശേഷം 30 മിനിറ്റ് നിങ്ങൾ കാത്തിരിക്കുന്നു 30 മിനിറ്റിനുശേഷം നിങ്ങൾ പ്ലേറ്റിംഗ് മീഡിയം നിറയ്ക്കുന്നു അപ്പോൾ ജോലി പൂർത്തിയായി ഇനി ഇവയെ തിരിച്ച് CO2 ഇൻകുബേറ്ററിൽ വെക്കാം അപ്പോൾ നിങ്ങളുടെ പ്ലേറ്റിംഗ് മീഡിയത്തിൽ ബഫറിങ്ങിനു വേണ്ടി സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് CO2 ബഫറിങ്ങിനു പുറമേ കോശങ്ങളുടെ വളർച്ചയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇനി ഈ കോശങ്ങളെ നിങ്ങൾ 2 മുതൽ 3 ദിവസം വരെ വളരാൻ അനുവദിക്കണം നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുക ഈ വ്യക്തിഗത കോശങ്ങൾ അടുത്തു വരാൻ തുടങ്ങും കോശങ്ങളുടെ ഒരു നിശ്ചിത സാന്ദ്രത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എങ്കിലേ ഈ കോശങ്ങൾക്ക് വളരെ അടുത്ത് വരാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ കോശങ്ങളുടെ സാന്ദ്രത വളരെ കുറവുള്ള കൾച്ചർ ആണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ കോശങ്ങൾ ദ്വീപു കണക്കെ രൂപപ്പെടുന്നത് കാണാൻ സാധിച്ചെന്നു വരില്ല നേരെമറിച്ച് കോശങ്ങളുടെ സാന്ദ്രത കൂടുതലാണെങ്കിൽ ഇത്തരത്തിൽ കോശങ്ങൾക്ക് നെക്രോസിസ് സംഭവിക്കുന്നതായി കാണാം അതിനാൽ കോശങ്ങൾ ഒരു മോണോ ലെയറായി വളരാൻ പാകത്തിന് അവയുടെ സാന്ദ്രത മിതമായി നിലനിർത്തേണ്ടത് ആവശ്യമാണ് ഈ കോശങ്ങൾ ഇത്തരത്തിൽ ആയി മാറുന്നു കാർഡിയാക് മയോസൈറ്റുകളിൽ നിങ്ങൾ കാണുന്ന സാധാരണ രൂപഘടന ഏകദേശം ഇത്തരത്തിൽ ആയിരിക്കും 3 മുതൽ 5 ദിവസം ആകുമ്പോഴേക്കും ഈ കോശങ്ങൾ സ്വമേധയ സ്പന്ദിക്കുവാൻ തുടങ്ങുന്നു അതിനായി ഈ കോശങ്ങൾക്ക് പുതുതായി ഒന്നും നൽകേണ്ടതില്ല അപ്പോൾ ഇവ സ്വമേധയാ സ്പന്ദിക്കുവാൻ തുടങ്ങും അപ്പോൾ ഞാൻ മുൻപിലെ ക്ലാസുകളിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി ഈ കോശങ്ങൾ അവയുടെ രൂപഘടന നിലനിർത്തണം പിന്നെ ഈ കോശങ്ങൾ അവയുടെ സ്പന്ദിക്കുവാൻ ഉള്ള കഴിവിനെ നിലനിർത്തണം ഇനി നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട മറ്റു സവിശേഷതകൾ എന്തെല്ലാം ആണ് ഈ കോശങ്ങൾ അവയുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ നിലനിർത്തുന്നുണ്ടോ എന്നറിയാൻ ഇലക്ട്രോഫിസിയോളജി നോക്കണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കാർഡിയാക് മയോസൈറ്റുകൾ ഇത്തരത്തിലുള്ള മനോഹരമായ ആക്ഷൻ പൊട്ടൻഷ്യൽ നിലനിർത്തുന്നത് അവ 80 millivolt റെസ്റ്റിംഗ് മെംബ്രൻ പൊട്ടൻഷ്യൽ നിലനിർത്തുന്നു അടുത്തതായി നിങ്ങൾ ഗ്യാപ്പ് ജംഗ്ഷൻ പ്രോട്ടീനുകളെ അടയാളപ്പെടുത്തണം കാർഡിയാക് മയോ സൈറ്റുകളിൽ പല വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള ധാരാളം ഗ്യാപ്പ് ജംഗ്ഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ അപ്പോൾ ഇവിടെ ഗ്യാപ്പ്ജംഗ്ഷനുകൾ ഉണ്ട് ഈ ഗ്യാപ്പ് ജംഗ്ഷനുകൾ അവയ്ക്കെതിരായ ആൻറിബോഡി ഉപയോഗിച്ച് അടയാളപ്പെടുത്താം Ab എന്നാൽ ഇവിടെ ഗ്യാപ്പ് ജംഗ്ഷനുകൾക്ക് എതിരെയുള്ള ആൻറിബോഡി ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് കാർഡിയാക് മയോസൈറ്റ് കൾച്ചറിലെ ഏറ്റവും നിർണായകമായ ഭാഗമാണ് അതാണ് കാൽസ്യം വേവ് ഇമേജിംഗ് ഈ കോശങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ കാൽസ്യം വേവ് ഇവയിലൂടെ സഞ്ചരിക്കുന്നു ഏകദേശം ഇതുപോലെ ഇത്തരത്തിലുള്ള കാൽസ്യം വേവുകളെ കോൺഫോക്കൽ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ അളക്കാവുന്നതാണ് ഈ കാൽസ്യം ഇംപ്ലാന്റുകൾ അതിനു പ്രത്യേകതരം ഡൈസ് ലഭ്യമാണ് ഞാൻ ഇതിനുമുമ്പും പലവട്ടം സൂചിപ്പിച്ചതുപോലെ കോശങ്ങളെ ഡിഷുകളിൽ നിക്ഷേപിച്ച് എങ്ങനെയെങ്കിലും വളർത്തിയെടുത്തതുകൊണ്ട് ഇക്കാലത്ത് ഒരു പ്രയോജനവുമില്ല ശരീരത്തിലെ കോശങ്ങളോട് ഏറ്റവും സമാനമായ രീതിയിൽ വികസിപ്പിച്ചെടുത്താലേ നിങ്ങൾക്ക് ഈ മേഖലയിൽ മത്സരിക്കാൻ ആവുകയുള്ളൂ എങ്കിൽ മാത്രമേ വ്യവസായസ്ഥാപനങ്ങൾക്ക് നിങ്ങൾ വികസിപ്പിച്ചെടുത്ത മാതൃകയിൽ താല്പര്യം തോന്നുകയുള്ളൂ അങ്ങിനെയല്ലെങ്കിൽ സെൽ കൾച്ചർ എന്ന പേരിൽ നിങ്ങൾ എന്തോ വളർത്തിയെടുക്കും അതിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ തീർത്തും അപ്രധാനവും ആവും നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ടെക്നോളജിയാണ് ഇവിടെ പ്രധാനം അപ്പോൾ ഇവിടെ നമ്മൾ അളക്കേണ്ട കാൽസ്യം വേവ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കോശങ്ങളുടെ രൂപഘടന കാണാൻ സാധിക്കണം ഗ്യാപ്പ്ജംഗ്ഷൻ അടയാളപ്പെടുത്താൻ സാധിക്കണം ശരിയല്ലേ കോശങ്ങളുടെ സ്വമേധയാ ഉള്ള സ്പന്ദനം നിങ്ങൾക്ക് കാണാൻ സാധിക്കണം ശരിയല്ലേ ഇലക്ട്രോ ഫിസിയോളജി ഉപയോഗിച്ച് കോശങ്ങളുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അളക്കാൻ സാധിക്കണം കോൺ ഫോക്കൽ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് നിങ്ങൾ കാൽസ്യം ഇമേജിങ് നടത്തണം ഹൃദയപേശികളിൽ അസ്ഥിപേശികളിൽനിന്നും വളരെ വ്യത്യസ്തമായ മയോസിൻ ഹെവി ചെയിൻ ആണ് കാണപ്പെടുന്നത് കാരണം ഈ കോശങ്ങൾ തുടർച്ചയായി ചുരുങ്ങുന്നു അപ്പോൾ മയോസിൻ ഹെവി ചെയിൻ കണ്ടുപിടിക്കണം എത്തരത്തിലുള്ള മയോസിൻ ഹെവി ചെയിൻ ആണ് രൂപപ്പെടുന്നത് എന്നതാണ് അടുത്ത പ്രധാന ഭാഗം അതിനാൽ ശ്രദ്ധിക്കേണ്ട പല ഭാഗങ്ങൾ ഉണ്ട് നിങ്ങളുടെ മോഡൽ സിസ്റ്റത്തിന് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ തനിപ്പകർപ്പുമായി പരമാവധി അടുത്ത് നിൽക്കാൻ കഴിയണം അതിനു കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അർത്ഥമില്ല അതിനാൽ ഈ കഠിനതകളിലൂടെ കടന്നു പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത മോഡലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന റീഡിങ് മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് നൽകാം ഇക്കാര്യങ്ങളെക്കുറിച്ച് അതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ മനസ്സിൽ ഇക്കാര്യം ഓർത്തു വയ്ക്കുക ഏതു മോഡൽ ഉപയോഗിച്ചു എന്നതിനേക്കാൾ പ്രധാനം ശരീരത്തിലെ യഥാർത്ഥ ചുറ്റുപാടിൽ കോശങ്ങൾ എപ്രകാരം നിലകൊള്ളുന്നുവോ അതിനോട് ഏറ്റവും സാമ്യതയുള്ള കോശങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് മുഖ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്